അതിനാൽ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആകൃതി ഫംഗ്ഷനുകൾ എങ്ങനെ നോക്കിയിരിക്കുന്നു എന്ന് നോക്കുക എന്നതാണ് അടുത്തതായി നമ്മൾ കാണേണ്ടത് തരംഗ സമവാക്യത്തോടെയുള്ള ആരംഭം ദുർബലമായ രൂപത്തിലേക്ക് പോകുക എന്നതാണ് അതിനാൽ എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സമവാക്യം എന്ന് നോക്കാം മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ എല്ലാം ആരംഭിക്കുന്നത് മാക്സ്വെല്ലിന്റെ സമവാക്യത്തിൽ നിന്നാണ് അതിനാൽ ആദ്യത്തെ സമവാക്യം എല്ലാം ശരിയാണ് അതിനാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് മുമ്പത്തെ കേസിൽ നമുക്ക് 1 ധ്രുവീകരണം പരിഗണിക്കാം മറ്റ് ധ്രുവീകരണം അതേ തരത്തിലുള്ള യുക്തി ശരിയാണ് അതിനാൽ ഞങ്ങൾ ഉപരിതല ഇന്റഗ്രലിൽ ടിഎം ധ്രുവീകരണം നടത്തുകയായിരുന്നു അതിനാൽ വിമാനത്തിലെ എച്ച് അങ്ങനെ ഞാൻ നിങ്ങളോട് 2D TM ധ്രുവീകരണത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ചാണ് ഞാൻ നിശ്ചയമായും സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് പ്ലെയിനിൽ എച്ച് എച്ച് അതാണ് ഞാൻ പരിഹരിക്കുന്നത് കാരണം അതാണ് എനിക്ക് വെക്റ്റർ റൈറ്റ് ആയി പ്രകടിപ്പിക്കാൻ കഴിയുന്നത് E ഒരു സ്കെലാർ ആണ് അവിടെ വെക്ടറിന്റെ പോയിന്റ് ഇല്ല അതിനാൽ ഞാൻ ഇപ്പോൾ എന്തുചെയ്യും അതെ അതിനാൽ നമുക്ക് ഈ സമവാക്യം ഉദാഹരണമായി എടുക്കാം ശരി അതിനാൽ ആദ്യത്തെ സമവാക്യത്തിന്റെ വലതുവശത്ത് നിന്ന് എന്തെങ്കിലും നീക്കംചെയ്യാൻ എനിക്ക് ആവശ്യമായ മറ്റ് ചുരുളൻ സമവാക്യം ഉപയോഗിക്കുന്നതിന് ഞങ്ങൾ ഇത് മുമ്പ് ചെയ്തു അത് a വിദ്യാർത്ഥി ഇവിടെയുള്ള ഈ എപ്സിലോൺ ബഹിരാകാശത്തിന്റെ പ്രവർത്തനമാണ് അതിനാൽ എനിക്ക് ഇത് ഇവിടെ കൊണ്ടുവരാൻ കഴിയും ഇത് സ്പെയ്സിന്റെ ഒരു ഫംഗ്ഷനാണ് ഇത് തുല്യമായിരിക്കും അടുത്ത ഘട്ടം അതിനാൽ ഞാൻ ഇപ്പോൾ J പദം അവഗണിക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ ഇത് ചേർക്കുന്നത് എളുപ്പമാണ് വിദ്യാർത്ഥി ചുരുളൻ ഇരുവശത്തും ചുരുട്ടുക അതിനാൽ ഞാൻ ഇത് മാറ്റിസ്ഥാപിക്കുന്നിടത്താണ് സംഭവിക്കുന്നത് ഞാൻ ശരിയാക്കാൻ പോകുന്നു അതിനാൽ ഞാൻ വൈദ്യുത മണ്ഡലം ഒഴിവാക്കി എന്റെ അജ്ഞാതത്തിൽ എനിക്ക് 1 വെക്റ്റർ തരംഗ സമവാക്യം ലഭിച്ചു അത് H ശരിയാണ് അതിനാൽ എനിക്ക് ഇത് 1 സമവാക്യമായി സംയോജിപ്പിക്കാൻ കഴിയും ഇത് ശരിയാണെന്ന് എഴുതുക ഇതാണ് എന്റെ വെക്റ്റർ തരംഗ സമവാക്യം അതിനാൽ സാധാരണയായി ഈ പ്രശ്നത്തിൽ എനിക്ക് നൽകിയിരിക്കുന്നത് ഇതാണ് സ്പെയ്സിന്റെ ഒരു ഫംഗ്ഷൻ എനിക്ക് നൽകിയിരിക്കുന്നത് ചില സംഭവ ഫീൽഡ് ആയിരിക്കാം ഒബ്ജക്റ്റ് നൽകിയിരിക്കുന്നു എല്ലായിടത്തും ഫീൽഡുകൾ കണ്ടെത്തുക ശരിയാണ് അതിനാൽ ഇതാണ് വെക്റ്റർ തരംഗ സമവാക്യം ശരി ഇപ്പോൾ ഇവിടെ ചില ഒബ്ജക്റ്റുകൾ ഉള്ള ഒരു തരം ഡൊമെയ്ൻ നൽകിയിരിക്കുന്നു ഇത് എന്റെ ശരിയാണ് അതിനാൽ FEM ൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇതെല്ലാം ചെറിയ ത്രികോണങ്ങളാക്കി ഉടനടി വിഭജിക്കുകയും തുടർന്ന് ചെയ്യുകയും ചെയ്യും അതിനാൽ തരംഗ സമവാക്യം ശരിയാണ് അതിനാൽ ഞങ്ങൾ 1D യിൽ ഉപയോഗിച്ചിരുന്ന പദവും അതാണ് ഞാൻ എല്ലാം 1 വശത്തേക്ക് എടുത്തപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അതിനെ റെസിഡ്യൂ റൈറ്റ് എന്ന് വിളിച്ചു അതിനാൽ ഐഡിയൽ വേൾഡ് ഐഡിയൽ വേവ് സമവാക്യത്തിന്റെ പരിഹാരം സാധ്യമല്ല അതിനാൽ ഒരു ശരാശരി വെയ്റ്റഡ് അർത്ഥത്തിൽ ഞാൻ പരിഹരിക്കുന്ന അടുത്ത ഏറ്റവും മികച്ച കാര്യം ഏതാണ് അതിനാൽ പകരം FEM പറയുന്നത് വെയ്റ്റഡ് റെസിഷ്യൽ രീതി ഡൊമെയ്നിൽ സംയോജിപ്പിക്കുന്നു അതിനാൽ കുറച്ച് ടെസ്റ്റിംഗ് ഫംഗ്ഷൻ എടുക്കുക ഇപ്പോൾ എനിക്ക് ഒരു ഡോട്ട് ഉൽപ്പന്നം എടുക്കണം കാരണം ഇത് യഥാർത്ഥത്തിൽ ഒരു വെക്റ്റർ ശരിയാണ് അതിനാൽ ഏത് ഡിഫറൻഷ്യൽ സമവാക്യമായാലും FEM വെയ്റ്റഡ് റെസിഷ്യൽ രീതിയുടെ ആരംഭ പോയിന്റാണിത് അതിനാൽ അതിനെ ദുർബലമായ രൂപത്തിലേക്ക് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നീട് നോക്കാം ഇത് ശരിയാണ് അതിനാൽ 2D വെക്റ്റർ FEM നെ കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ തുടരും നമുക്ക് ഇതുവരെ ഉള്ളത് തരംഗ സമവാക്യമാണ് തരംഗ സമവാക്യം ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചു ഞാൻ ഈ സമവാക്യം ഇവിടെ എടുത്തപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു J പദവും ഉണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോൾ അവഗണിച്ച പ്രശ്നത്തെ ആശ്രയിച്ച് നിങ്ങൾ അത് ശരി എന്ന് ചേർക്കേണ്ടതുണ്ട് ശരി എന്ന് ചേർക്കേണ്ടതുണ്ട് അതിനാൽ ഈ ചർച്ചയിൽ കറന്റ് ഇല്ലെങ്കിൽ കറന്റ് ഇല്ലെങ്കിൽ അത് ഈ സമവാക്യത്തിലും ദൃശ്യമാകുമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ പൊതുവെ അത് ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിൽ വയ്ക്കാൻ ബാക്കിയുള്ളതിൽ ഈ J പദവും ഉൾപ്പെടുത്തും എഫ്ഇഎമ്മിന്റെ തത്ത്വശാസ്ത്രം അതേ വെയ്റ്റഡ് അവശിഷ്ട രീതിയാണ് ഞാൻ എന്റെ ടെസ്റ്റിംഗ് ഫംഗ്ഷനുകൾ എടുക്കുകയും ഈ അവശിഷ്ടം ശരാശരി അർത്ഥത്തിൽ 0 ആക്കുകയും ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ഇത് തുറന്ന് ഇവിടെ നിന്ന് ദുർബലമായ രൂപം എന്താണെന്ന് നോക്കാം അതിനുമുമ്പ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം അതിനാൽ 1D യിലെ പ്രധാന ട്രിക്ക് എന്തായിരുന്നു ഇത് ഭാഗങ്ങൾ ഉപയോഗിച്ച് ദുർബലമായ രൂപ സംയോജനത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞങ്ങളെ അനുവദിച്ചു കാരണം ഞങ്ങൾക്ക് അത് ആവശ്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ഇരട്ട ഡെറിവേറ്റീവ് അവകാശമുണ്ട് ഇവിടെ ഒരു ഡബിൾ ഡെറിവേറ്റീവ് പദത്തിന്റെ മറ്റൊരു പദമുണ്ട് അതിനാൽ അതിനെ ഒറ്റ ഡെറിവേറ്റീവുകളാക്കി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഭാഗങ്ങളുടെ സംയോജനമാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ രണ്ട് അളവുകളിൽ അതിനാൽ രണ്ട് അളവിലുള്ള ഭാഗങ്ങളുടെ സംയോജനം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഒരു മണി മുഴങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ വെക്റ്റർ കാൽക്കുലസിൽ നിന്ന് നിങ്ങൾ പദപ്രയോഗം എന്ന് വിളിക്കുന്ന വളരെ ലളിതമായ ഒരു പദപ്രയോഗം അവിടെ ഞങ്ങളെ സഹായിക്കും അതിനാൽ നമുക്ക് ഇത് എഴുതാം ഞാൻ ഇത് ഇവിടെ മുകളിൽ എഴുതുന്നു സ്പേസിന്റെ പ്രവർത്തനമാണെന്ന് ഓർക്കുക അല്ലാത്തപക്ഷം പ്രശ്നം രസകരമല്ല അതിനാൽ ഞങ്ങൾ ഒരു 2D പ്രശ്നം പരിഗണിക്കുന്നതിനാൽ ഞാൻ dot dr എഴുതിയിട്ടുണ്ട് ഇത് ഒരു ദ്വിമാന വ്യത്യാസമാണ് ഉദാഹരണത്തിന് ഇത് ഒരു dx dy dz ok ആകാം അതിനാൽ ഞാനാണ് പക്ഷേ ഞാൻ അത് ഓകെ എന്ന് ചുരുക്കി എഴുതുകയാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ ഭാഗങ്ങൾ അനുസരിച്ച് സംയോജനം പ്രയോഗിക്കേണ്ട ഭാഗമാണ് അതിനാൽ നമുക്ക് വളരെ ലളിതമായ ഒരു ഐഡന്റിറ്റി നോക്കാം ഇടതുവശത്തെ ഈ ആദ്യഭാഗം ശരിയാണ് ഇതാണ് ഞങ്ങൾ രണ്ടാം ഭാഗം നോക്കാൻ പോകുന്നത് എളുപ്പമാണ് അതിനാൽ ഇത് എങ്ങനെ കാണപ്പെടുന്നു ഇത് പോലെ തോന്നുന്നു അതിനാൽ ഇത് തിരുത്തിയെഴുതാനുള്ള ലളിതമായ മാർഗമുണ്ട് ശരി ഇവ വെക്റ്റർ കാൽക്കുലസിലെ സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റികളാണ് ശരി അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇന്റഗ്രലിന്റെ ആദ്യ ടേമിനുള്ളിൽ ഈ ഐഡന്റിറ്റി മാറ്റിസ്ഥാപിക്കും അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾ ആദ്യ ടേം എടുക്കും ആദ്യ ടേമിന് എന്ത് സംഭവിക്കും അതിനാൽ നമുക്ക് ആദ്യ പദം എഴുതാം ഇവിടെ അതിശയിക്കാനൊന്നുമില്ല അതിനാൽ ഞാൻ രണ്ടാമത്തെ ഡെറിവേറ്റീവിൽ നിന്ന് രക്ഷപ്പെട്ടോ ആദ്യ ടേമിൽ ഏതെങ്കിലും രണ്ടാമത്തെ ഡെറിവേറ്റീവ് നെഗറ്റീവ് സെക്കന്റ് ടേമിൽ ഉണ്ടോ അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വിദ്യാർത്ഥി പക്ഷേ എന്നാൽ ഞാൻ സംയോജിപ്പിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ സമന്വയിപ്പിക്കും എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഇതിനകം കണ്ട ഏതെങ്കിലും സിദ്ധാന്തം അല്ലെങ്കിൽ വെക്റ്റർ കാൽക്കുലസ് പോലെ തോന്നുന്നുണ്ടോ വിദ്യാർത്ഥി അതെ ഭിന്നത അതിനു മീതെ ഒരു ഉപരിതലം അവിഭാജ്യമാണ് അതിനാൽ അത് ഏത് സിദ്ധാന്തം പോലെയാണ് വിദ്യാർത്ഥി 2D വ്യതിചലനം 2D വ്യതിചലന സിദ്ധാന്തം കൃത്യമായി അങ്ങനെ തന്നെ 2D വ്യതിചലന സിദ്ധാന്തം ശരിയാണ് അതിനാൽ ഈ പദം മൈനസ് ആയി തുടരും അതിനാൽ രണ്ടാമത്തേത് ഇരട്ട ഇന്റഗ്രൽ എന്തായിരിക്കും വിദ്യാർത്ഥി ലൈൻ ലൈൻ ഇന്റഗ്രൽ റൈറ്റ് ഒരു ഡൈമൻഷൻ കുറയ്ക്കാൻ ഡൈവേർജൻസ് സിദ്ധാന്തം നമ്മെ സഹായിക്കുന്നു അതിനാൽ ഔട്ട്ഗോയിംഗ് ഫ്ലക്സ് ഒരു ആയി മാറുന്നു വിദ്യാർത്ഥി ലൈൻ 3D യിൽ ഞാൻ വോളിയം ഇന്റഗ്രൽ ഡൈവർജൻസ് വോളിയം ഇന്റഗ്രൽ ഡൈവർജൻസ് ഉപരിതലത്തിൽ ഒരു ഫ്ലക്സ് ഇന്റഗ്രൽ ആയി മാറുന്നു 2D യിൽ ഒരു ഉപരിതല ഇന്റഗ്രൽ ഒരു ലൈൻ ഇന്റഗ്രൽ ആയി മാറും കൂടാതെ വരിയിൽ നിന്ന് എത്ര ഫ്ലക്സ് പുറത്തേക്ക് പോകുന്നു എന്നതും ശരിയാണ് അതിനാൽ ഈ മുഴുവൻ പദപ്രയോഗവും ഉപയോഗിച്ച് എന്തെങ്കിലും മാറ്റിസ്ഥാപിക്കുന്നു അപ്പൊ ശരി അതിനാൽ ഇത് എന്റെ കംപ്യൂട്ടേഷണൽ ഡൊമെയ്നാണെങ്കിൽ ഇത് മുഴുവൻ ഇന്റീരിയർ സംഗതിയാണ് ഈ കേസിൽ ഉപരിതലമോ വരയോ ആണെങ്കിൽ അതിനാൽ ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ടോ ഇരട്ട ഡെറിവേറ്റീവ് ശരിയായി പോയി എന്ന് നമുക്ക് പറയാം ആദ്യത്തെ ടേമിന് രണ്ടാമത്തെ ടേം ഇല്ല അത് 2D ഡൈവേർജൻസ് സിദ്ധാന്തം ഉപയോഗിച്ച് ശരിയാണ് അതിനാൽ നിങ്ങളിൽ പ്രശ്നമുള്ളവർക്കായി ഞങ്ങൾ ഈ 2D വ്യതിചലന സിദ്ധാന്തത്തിൽ വിളിക്കുന്നു ഞാൻ അത് ഇവിടെ എഴുതാം അതിനാൽ അതിനാൽ ഇതെല്ലാം അൽപ്പം സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ എല്ലാം ഒരുമിച്ച് ചേർത്താൽ എന്റെ ദുർബലമായ രൂപം എങ്ങനെയിരിക്കും ആദ്യ ടേം ശരിയായതുപോലെ തന്നെ തുടരും അതിനാൽ ഇത് 2D ദുർബലമായ ഫോം ചോദ്യമാണ് അതിനാൽ ഗാമ ഈ മാധ്യമത്തിന്റെ മൊത്തത്തിലുള്ള അതിർത്തിയോ ത്രികോണത്തിന്റെ അതിർത്തിയോ ആയിരിക്കണം ഈ മീഡിയത്തിന്റെ മൊത്തത്തിലുള്ള അതിർത്തി കാരണം നിങ്ങൾ ഈ സ്ലൈഡ് മുഴുവനായി നോക്കിയാൽ ഞാൻ എവിടെയെങ്കിലും ത്രികോണം ഉപയോഗിച്ചിട്ടുണ്ടോ അല്ല ഞാൻ അർത്ഥമാക്കുന്നത് ഞാൻ ഇപ്പോൾ ചിത്രത്തിലൂടെ സൂചിപ്പിച്ചതാണ് പക്ഷേ ത്രികോണം ദൃശ്യമാകില്ല കാരണം ഞാൻ H ആയി H നിലനിർത്തിയതിനാൽ H എന്തായാലും പിന്നീട് ഞാൻ H എന്ന ത്രികോണത്തിന്റെ അടിസ്ഥാനത്തിൽ H എഴുതാം എന്നാൽ ഇത് പോകുമ്പോൾ ഈ വ്യതിരിക്ത സിദ്ധാന്തം സംസാരിക്കുന്നത് മൊത്തത്തിലുള്ള അതിർത്തി അതിനാൽ ഈ അതിർത്തി പദം അതിർത്തിയിൽ മാത്രം വരുന്നു ഇപ്പോൾ ഉപ ഡൊമെയ്ൻ അടിസ്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ചോ മുഴുവൻ ഡൊമെയ്ൻ അടിസ്ഥാനമായോ നിങ്ങൾക്ക് അറിയാൻ എച്ച് ഉണ്ടായിരിക്കാൻ ഇത് ഒരു തരത്തിലും എന്നെ നിർബന്ധിക്കുന്നില്ല അത് വളരെ പൊതുവായ കാര്യമാണ് വിദ്യാർത്ഥി ഈ സമവാക്യം നമുക്കില്ലേ സമയം കാണുക 1657 ടെസ്സലേഷൻ മുഴുവനും ഇവിടെ നമുക്ക് ടെസ്സലേഷൻ ഇല്ല വെക്റ്റർ കാൽക്കുലസിൽ നിന്നുള്ള അടിസ്ഥാന ഐഡന്റിറ്റികൾ ഞങ്ങൾ ഉപയോഗിച്ചു ഞങ്ങൾക്ക് ഇതുവരെ ടെസ്സലേഷൻ H ഇല്ല മുഴുവൻ ഡൊമെയ്നും എല്ലാം അങ്ങനെ ആദ്യം എല്ലാ വെക്റ്റർ കാൽക്കുലസ് ലളിതവൽക്കരണങ്ങളും ചെയ്യുന്നതിൽ അർത്ഥമുണ്ട് തുടർന്ന് ടെസ്സലേഷൻ ബേസ് ഫംഗ്ഷനിലേക്കും മറ്റും പോകുക കാരണം നിങ്ങളുടെ പ്രശ്നത്തിന്റെ സങ്കീർണ്ണത നിങ്ങൾ കുറയ്ക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ n തൊപ്പി ഇപ്പോൾ ഔട്ട്പുട്ട് ആയിരിക്കും ഞാൻ ഇപ്പോൾ ഒരു ദീർഘചതുരം വരച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ആകൃതിയും ആകാം പ്രശ്നത്തിന്റെ ഫൈൻ അനുസരിച്ച് അതിനാൽ അത്തരമൊരു കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്നിന് പകരം എനിക്ക് കുറച്ച് വ്യത്യസ്തമായ ഒരു ഡൊമെയ്ൻ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അതിനാൽ എനിക്ക് ഇത്തരത്തിൽ ഏറ്റവും പുറത്തുള്ള ത്രികോണം ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് മെറ്റാലിക് നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അറിയാവുന്ന ചില ഭാഗങ്ങൾ എനിക്കറിയാം അവിടെ നമുക്ക് മെറ്റൽ കഷണം നൽകട്ടെ ഉള്ളിലെ ഫീൽഡ് ലോഹത്തിനുള്ളിലാണെന്ന് എനിക്കറിയാം വിദ്യാർത്ഥി 0 അത് 0 ശരിയാണെന്ന് കണ്ടുപിടിക്കുന്നതിൽ അതിനെ അനുകരിച്ച് കണ്ടെത്തുന്നതിൽ അർത്ഥമില്ല അതിനാൽ ഈ ഹാഷ് ചെയ്ത പ്രദേശം ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്ത് മാറ്റമുണ്ടാകും വിദ്യാർത്ഥി ആദ്യത്തെ മൈനസ് ശരി അതിനാൽ ഈ വ്യതിരിക്ത സിദ്ധാന്തം 2 ലൈൻ ഇന്റഗ്രലുകൾ ഒഴിവാക്കാൻ പരിഷ്കരിക്കും അതിനാൽ നിങ്ങൾ ഈ ഹരിതമേഖലയിൽ മാത്രം സമന്വയിപ്പിക്കുന്നു അതിനാൽ ഞാൻ ഇതിനെ വിളിക്കുകയും ഞാൻ ഇതിനെ വിളിക്കുകയും ചെയ്താൽ ആ സാഹചര്യത്തിൽ RHS ആയി മാറുകയും പദപ്രയോഗം അതേപടി നിലനിൽക്കുകയും ചെയ്യും ഇവിടെയുള്ള റീജിയൻ ഗാമ ഈ ഹാഷ് റീജിയനെ റൈറ്റ് ഒഴിവാക്കും അതിനാൽ ശരിയായ ഉപയോഗമില്ലാത്ത ഒരു സിമുലേഷനും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത പ്രദേശങ്ങൾ നിങ്ങൾക്കറിയാൻ ഞങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണിത് കാരണം നിങ്ങളുടെ കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്ൻ വലുതായതിനാൽ കമ്പ്യൂട്ടേഷണലിന്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ വില നൽകേണ്ടിവരും അതിനാൽ ഇത് ഞങ്ങളുടെ ദുർബലമായ രൂപമാണ് ഇതാണ് നല്ലത് അതിനാൽ ഇപ്പോൾ അതിർത്തി വ്യവസ്ഥ ശരിയായിരിക്കുന്ന വളരെ നിർണായക ഭാഗത്തേക്ക് ഞങ്ങൾ വരുന്നു അതിനാൽ 1D യിൽ നിന്ന് ട്രിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വലത് വശത്തെ പദം ഇവിടെ ദൃശ്യമാകുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെയാണ് എനിക്ക് അതിർത്തി വ്യവസ്ഥ ശരിയാക്കേണ്ടത് 1D കേസിൽ എന്റെ വലത് വശത്തെ പദം എങ്ങനെയായിരുന്നു അത് ഒരു dudx ആയിരുന്നു 2D യുടെ കാര്യത്തിൽ അത് കൃത്യമായി dudx അല്ല പക്ഷേ അത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കുമെന്ന് കണക്ക് ചെയ്യാതെ ഇത് എങ്ങനെ ഏകദേശമാക്കാമെന്ന് ഇപ്പോൾ എനിക്ക് കണ്ടെത്തേണ്ടതുണ്ട് 1D കേസിൽ ഞാൻ കണ്ട dudx ഞാൻ അതിനെ ചില സ്ഥിരമായ സമയങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു കാരണം മീഡിയത്തെയും അതിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്ന സ്ഥിരമായ ഒരു വിമാന തരംഗം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് അത് നന്നായി അനുകരിക്കുന്നു അതിനാൽ ഞാൻ 1D യിൽ നിന്ന് 2D യിലേക്ക് പോകുമ്പോൾ ഭൌതികശാസ്ത്രം നാടകീയമായി മാറില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതിനാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ അവബോധപൂർവ്വം പ്രതീക്ഷിക്കുന്നു വിദ്യാർത്ഥി സ്ഥിരാങ്കങ്ങൾ എനിക്ക് ചില സ്ഥിരാങ്കങ്ങൾ ലഭിക്കണം അത് ഞാൻ പ്രതീക്ഷിക്കേണ്ട രൂപമാണ് എന്നോട് ക്ഷമിക്കൂ വിദ്യാർത്ഥി ഇത് കുറച്ച് ചതുരമാണ് അതെ ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ H ലെ ലീനിയർ എന്നത് H ലെ ചില ഡെറിവേറ്റീവുകളല്ല H ൽ ചില ലീനിയർ എക്സ്പ്രഷനുകൾ ഉണ്ടാകും അതാണ് ഞാൻ ശരി എന്ന് പ്രതീക്ഷിക്കുന്നത് അതിനാൽ ഡെറിവേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈ പരിശോധന നടത്തുന്നത് നല്ലതാണ് അതുവഴി നിങ്ങളുടെ അവബോധം നിങ്ങളുടെ ഗണിതവുമായി പൊരുത്തപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയാം